ഹലോ ക്ലൌഡ് കമ്പ്യൂട്ടിംഗി എങ്ങനെ കൂടുതൽ പ്രായോഗികമാക്കാം

അതിനാൽ ക്ലൌഡിന്റെ ഇരുണ്ട വശം ഊർജ്ജ ഉപഭോഗത്തിന്റെ വലിയ അളവാണ് അല്ലെങ്കിൽ വലിയ അളവിലുള്ള ഊർജ്ജ ഉപഭോഗമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റാ സെന്ററുകളിൽമായി എവിടെയെങ്കിലും പൊരുത്തപ്പെടുന്നതായി നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഇവ ചെലവഴിക്കുന്നത് x പോലെയാണ് കൂടുതലോ കുറവോ x ഉം ആ ഭാഗത്ത് ചെലവഴിക്കുന്നു ചില സന്ദർഭങ്ങളിൽ പ്രത്യേക സ്ഥലത്തിന്റെയും ഊർജ്ജത്തിന്റെയും വില കാരണം ഇത് കൂടുതൽ ചെലവേറിയതാണ് രണ്ടാമതായി ഇത്തരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ പരിപാലിക്കുന്നതിനായി ചെലവഴിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് വളരെ വലുതാണ് ഇത് മൊത്തത്തിലുള്ള ഉപഭോഗമല്ലെങ്കിൽ ഉപഭോഗത്തിന്റെ അളവ് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ കുറയ്ക്കാൻ കഴിയും ഒരു പ്രത്യേക പരിധിക്കുശേഷം സ്കെയിൽ ചെയ്യുന്നത് പ്രായോഗികമാകണമെന്നില്ല അതിനാൽ ഒരാൾക്ക് ചെലവഴിക്കാൻ പണമുണ്ടാകാമെങ്കിലും കാര്യങ്ങൾക്ക് വിതരണം ലഭ്യമായിരിക്കില്ല അതിനാൽ മറ്റൊരു വശത്ത് ഇത് നമ്മുടെ പരിസ്ഥിതിയെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു കൂടുതൽ ഊർജ്ജ ഉപഭോഗം മൂലം കാർബൺ ഒരു ദിശയുണ്ടെങ്കിലും ഏതെങ്കിലും അടിസ്ഥാന സൌകര്യങ്ങൾ നമ്മൾ സജ്ജമാക്കുമ്പോഴെല്ലാം അടിസ്ഥാന സൌകര്യങ്ങളുടെ വില മാത്രമല്ല ഊർജ്ജ ഉപഭോഗം എങ്ങനെ കുറയ്ക്കാം എന്നതും നാം ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രീൻ ക്ലൌഡ് പറ്റി ആണ് നിർവചനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് സെർവറുകൾഉണ്ട്

എന്നിരുന്നാലും ഈ നിർവ്വചനങ്ങളിൽ അൽപ്പം ആഴത്തിൽ നോക്കിയാൽ ധാരാളം ഊർജ്ജം ആവശ്യമുള്ള വിഭവങ്ങളുണ്ട് നമ്മൾ നെറ്റ്വർക്കുകൾ കളുടെ എണ്ണവും 4 ആണ് അതിനാൽ എല്ലാ സെർവറിനും ഉൾക്കൊള്ളാൻ കഴിയും വിഎം സ്ഥാപിക്കാൻ കഴിയും ഇത് വലിയ രീതിയിൽ ഊർജ്ജം ലാഭിക്കാമായിരുന്നു അതിനാൽ ഈ വശങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കേണ്ടത് അത് അത്ര ലളിതമല്ല നമ്മൾ എങ്ങനെ പ്രശ്നം താൽക്കാലികമായി നിർത്താൻ ശ്രമിക്കുന്നു എങ്ങനെ ചർച്ച ചെയ്യുന്നു പക്ഷേ പ്രോജക്റ്റുകളുടെയും പോകാം അതിനാൽ മറ്റ് സ്ലൈഡ് ഉണ്ട് ഓരോ ലെയറും മൊത്തത്തിലുള്ള ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതുമായ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അതിനാൽ ഇവ നോക്കുമ്പോൾ നമ്മൾ ഒരു ഗ്രീൻ ക്ലൌഡ് ഉപയോഗപ്പെടുത്തുന്നതിനും മാത്രമല്ല ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് അതിനാൽ കീ ഓഎസുംനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ ഇരുവശവും നോക്കുന്നു ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറി കുറയ്ക്കുകയും വഴക്കം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ ധാരാളം ഗുണങ്ങളുണ്ട് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറയ്ക്കാൻ ശ്രമിച്ചേക്കാം അതിനാൽ നമ്മൾ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുകയാണെന്ന് തോന്നിയേക്കാം എന്നാൽ മറുവശത്ത് ഉപഭോഗം വർദ്ധിക്കുന്നു അതിനാൽ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് ആ സേവന ദാതാവിന്റെ അറ്റങ്ങൾ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമാക്കാം എന്നതാണ് അതിനാൽ ഊർജ്ജ ഉപഭോഗം കാർബൺ കാൽപ്പാടുകൾ എന്നിവയിൽ വെല്ലുവിളി പ്രത്യേകിച്ചും 2007 ലെ ഗാർട്ട്നർ റിപ്പോർട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ലോകത്തെ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് സേവന ദാതാവാണ് പ്രധാന സംഭാവകർ അവയുടെ മൊത്തത്തിലുള്ള ഊർജ്ജ ഉപഭോഗം വളരെ ഉയർന്നതാണ് വലിയ ഡാറ്റാ സെന്ററുകൾ കൂടിയാണ് അതിനാൽ 7 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയിലധികം ആയിരിക്കാം അതിനാൽ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമായതിനാൽ ക്ലൌഡിലേക്കോ ക്ലൌഡ് വ്യവസായത്തിലേക്കോ ഇത് മാറുന്നത് വളരെ ഉയർന്ന നിരക്കിൽ വളരുകയാണ് അതിനാൽ ഊർജ്ജ ഉപഭോഗത്തിന്റെ ഈ കണക്ക് കുറയുന്നതിനേക്കാൾ വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ക്ലൌഡിന് കൂടുതൽ ഡിമാൻഡ് അർത്ഥമാക്കുന്നത് കൂടുതൽ ഊർജ്ജ ഉപഭോഗമാണ് അതിനാൽ ഗ്രീൻ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ആവശ്യമുണ്ട് അതിനാൽ വർദ്ധിച്ച ഊർജ്ജ ഉപഭോഗമുള്ള കമ്പ്യൂട്ടിംഗ് വരെ ചിലവാകും അതിനാൽ ഊർജ്ജ ഉപഭോഗം കണ്ടാൽ ഉപകരണങ്ങൾ 40 ശതമാനവും ഊർജ്ജ വിതരണം 15 ശതമാനവും തണുപ്പിക്കൽ സംവിധാനം 45 ശതമാനവും എടുക്കുന്നു അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഇപ്പോഴും കുറവാണ് ഇപ്പോൾ നിങ്ങൾ ഡിസി ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ

അതിനാൽ ഐസിഎംപി പ്രോട്ടോക്കോൾകാതലാണ് അതിനാൽ സാധാരണ വാസ്തുവിദ്യയാണ് പഴയ അല്ലെങ്കിൽ പഴയ ഡിസികൾ എന്ന് അർത്ഥമാക്കുന്നത് എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് മറ്റെല്ലാ വലിയ നെറ്റ്വർക്കുകളെയും ചെയ്യുന്നത് കൂടുതൽ സൌഹാർദ്ദപരമാണ് അതിനാൽ ഇതിന് ഇത്തരത്തിലുള്ള വാസ്തുവിദ്യയുണ്ട് അതിനാൽ അതിനൊപ്പം മൂന്ന് ടയർ അതിനാൽ ഇത് കൂടുതൽ മികച്ച പ്രതികരണശേഷിയുള്ള വാസ്തുവിദ്യയാണ് അതിനാൽ ഇന്നത്തെ വാസ്തുവിദ്യയിൽ ഇവ വിന്യസിക്കുമ്പോഴെല്ലാം വസ്തുക്കളുടെ ഊർജ്ജ ഉപഭോഗം പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇത് മികച്ച കമ്പ്യൂട്ടിംഗിനെ നമുക്ക് ആവശ്യമാണ് പ്രകടനം ഉൾക്കൊള്ളാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മുടെപ്രാഥമിക ലക്ഷ്യം ഊർജ്ജ കാര്യക്ഷമമാക്കുക എന്നതാണ് അതിനാൽ ഇത് ഒരു ഡിസി സെർവർ എനർജി മോഡലാണ് നിഷ്ക്രിയമായിരിക്കുമ്പോൾ പോലും സിപിയു ഫ്രീക്വൻസിയുടെ ലോഡിന്റെ ഒരു പ്രത്യേക തലത്തിലുള്ള തണുപ്പിക്കൽ നിലനിർത്തേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരുതരം ഊർജ്ജ നില നിലനിർത്തേണ്ടതുണ്ട് ഊർജ്ജ മോഡലുകളുടെ വ്യത്യസ്ത മോഡലുകൾ ഉണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു നിശ്ചിത പവർ മോഡൽലഭിക്കും അതുപോലെ നമ്മൾ സ്വിച്ച് കളുടെ ആംഗ്രി മോഡൽ 11 ശതമാനവും ഉപയോഗിക്കുന്നു അതിനാൽ പി ചേസിസ് ഉചിതമായി വിതരണം ചെയ്യാൻ എനിക്ക് കഴിയുമെന്നതുപോലുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഇത് ഗണ്യമായി കണക്കാക്കാമെന്ന് നമ്മൾ കാണുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ ഒരു മികച്ച കണക്ക് കണ്ടെത്താനാകും അതിനാൽ ഇത് പരിസ്ഥിതിയെ ഒരു നിശ്ചിത സ്വാധീനം ചെലുത്തുന്നു ഈ പരിസ്ഥിതി നമ്മൾ സംസാരിക്കുന്നത് ക്ലൌഡ് കാൽപ്പാടുകളെക്കുറിച്ച് സംസാരിച്ചു അവിടെ ഒരു ചൂടാക്കൽ ഫലമുണ്ടാകാം കൂടാതെ മറ്റ് തരത്തിലുള്ള മലിനീകരണ ഫലവും ഉണ്ടാകാം അതിനാൽ ഡാറ്റാ സെന്ററുകൾ വൈദ്യുതിയും തണുപ്പും ആവശ്യമാണ് അതിനാൽ ഇത് വലിയ ഊർജ്ജ ഉപഭോഗമായ മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ഈ പ്രകടനവും ഊർജ്ജ കാര്യക്ഷമതയും തമ്മിൽ നിങ്ങൾ സന്തുലിതമാക്കേണ്ടതുണ്ട് കാരണം ഊർജ്ജ ചെലവ് വർദ്ധിക്കുമ്പോൾ ലഭ്യത കുറയുന്നു ഉയർന്ന സേവന തലത്തിലുള്ള പ്രകടനം നിലനിർത്തിക്കൊണ്ടുതന്നെ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ശുദ്ധമായ പ്രകടനത്തിനായി ഡാറ്റാ സെന്ററുകൾ ഉദ്വമനം എന്നിവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുപോലെയാണ് അതിനാൽ നിങ്ങൾ കൂടുതൽ പ്രായോഗിക രീതിയിൽ നോക്കേണ്ടതുണ്ട് അതിനാൽ ഈ മാതൃകയിൽ ഈ ഊർജ്ജ ഘടകങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം എന്നത് പ്രധാനമാണ് ക്ലൌഡ് സേവന ദാതാക്കളിൽ നിന്ന് നിരവധി സംരംഭങ്ങൾ ആവശ്യമാണ് ഉയർന്ന ഊർജ്ജ ചെലവ് കാരണം അവരുടെ ലാഭവിഹിതം ഗണ്യമായി കുറയുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ക്ലൌഡ് അതിന്റെ ഡാറ്റാ സെന്ററുമായിdata center ബന്ധപ്പെട്ട ചെലവ് കണക്കാക്കുന്നത് വിലകുറഞ്ഞ ജലവൈദ്യുതി മുതലെടുക്കാൻ കൊളംബിയ നദിക്ക് ചുറ്റുമുള്ള തരിശായ മരുഭൂമിയിൽ ഗൂഗിൾ നഷ്ടം ഒരു കടുത്ത ഘടകമായി ചുരുങ്ങുന്നു അതിനാൽ ഇത് എടുക്കുന്നത് സാധാരണ ഗ്രീൻ ക്ലൌഡ്ആണ് അതിനാൽ വ്യത്യസ്ത ക്ലൌഡ് സേവന ദാതാക്കളിൽ വ്യവസ്ഥ ചെയ്യുന്നു അതിനാൽ ഇത് കൂടുതൽ ഊർജ്ജ അവബോധമുള്ള സേവനങ്ങളാണ് അതിനാൽ നമ്മൾ ഗ്രീൻ ബ്രോക്കറിലേക്ക് അഭ്യർത്ഥന സേവനങ്ങളും നിരീക്ഷിക്കുന്നു അതുപോലെ നമുക്ക് ഒരു ഗ്രീൻ മിഡിൽവെയർ ഉണ്ട് അത് ഗ്രീൻ IaaS ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് വെർച്വലൈസേഷൻ സേവനങ്ങൾ ഉണ്ട്

അതിനാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന വ്യത്യസ്ത വഴികളാണ് ഇവ ഊർജ്ജ ഉപയോഗ ഫലപ്രാപ്തി അളക്കുന്നതിലും PUE എന്താണെന്നും അത് എങ്ങനെ അളക്കാമെന്നും ഈ പവർ എത്രത്തോളം ഫലപ്രദമാണെന്നും കണ്ടെത്തുന്നതിന് ചില ശ്രമങ്ങളുണ്ട് അതിനാൽ ഇതിന് പിന്നിൽ വ്യത്യസ്ത സിദ്ധാന്തങ്ങളുണ്ട് അതിനാൽ ഒരു സാധാരണ ഇൻഫ്രാസ്ട്രക്ചറിന്റെയോ സേവന ദാതാവിന്റെയോ ഈ ഊർജ്ജ ഉപയോഗ ഫലപ്രാപ്തി അളക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ഈ ചാർട്ട് കണക്കാക്കുന്നു ചുരുക്കത്തിൽ ക്ലൌഡ് വികസ്വര പ്രദേശങ്ങൾ ഊർജ്ജകാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ധാരാളം ഗവേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനാൽ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടിംഗ് പരിതസ്ഥിതിയിലേക്ക് നാം പോകേണ്ടതുണ്ട്